സ്വാഗതം ഇത് അമ്പത്തിമൂന്നാം നമ്പർ ലെക്ചർ ആണ് ഇന്ന് ഓർഡറും ഡിഗ്രിയും 1 ആയിട്ടുള്ള ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച തുടരും ഇന്നത്തെ വിഷയം എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളായിരിക്കും അവയുടെ ആമുഖവും സൊലൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും ആണ് പ്രധാനമായും ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻറെ ഡെറിവേറ്റീവ്നെ എന്നെഴുതാൻ കഴിയുന്ന വിധത്തിൽ എന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ നിലനിൽക്കുമ്പോഴാണ് നെ എക്സാക്റ്റ് ഡെറിവേറ്റീവ് എന്നു വിളിക്കുന്നത് അതിനർത്ഥം ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഫംഗ്ഷനെയാണ് അതിന്റെ ഡിഫറൻഷ്യൽ കൃത്യമായി ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഇടത് വശം ആയിരിക്കും അതിനുശേഷം നമ്മൾ ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യം എന്ന് വിളിക്കുന്നു കാരണം ഇത് ചില ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ ആണ് അത്തരമൊരു ഫംഗ്ഷൻ കണ്ടെത്തിയാൽ ഇൻറെഗ്രേഷൻ വളരെ എളുപ്പമാണ് കാരണം നമുക്ക് ഇവിടെ എന്നുണ്ട് ഇതിൽ നിന്നും എന്ന സൊലൂഷൻ ലഭിക്കുന്നു അതിനാൽ ഒരു പ്രധാന ജോലി ഈ ഫംഗ്ഷൻ കണ്ടെത്തുക എന്നതാണ് അതിൻറെ ഡിഫറൻഷ്യൽ കൃത്യമായി ഈ ഡിഫറൻഷ്യൽ സമവാക്യമാവുന്ന വിധത്തിൽ അതിനാൽ ഒന്നുകിൽ നമുക്കതിനെ എന്ന് എടുക്കാം അല്ലെങ്കിൽ നേരത്തെ നിർവചിക്കപ്പെട്ടിട്ടുള്ള എന്ന രൂപത്തിൽ എടുക്കാം നമുക്ക് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആയിരിക്കുന്നതിന് ആവശ്യമായതും മതിയായതുമായ നിബന്ധനയെക്കുറിച്ച് ഒരു നല്ല റിസൽട്ട് ഉണ്ട് അതായത് എന്ന ഒരു ഡിഫറൻഷ്യൽ സമവാവാക്യം എക്സാക്റ്റ് ആയിരിക്കുന്നതിന് ആവശ്യമായതും മതിയായതുമായ നിബന്ധന എന്നാണ് കൃത്യമായി പറഞ്ഞാൽ എന്ന ഫംഗ്ഷൻറെ അടിസ്ഥാനമാക്കിയുള്ള ഭാഗിക ഡെറിവേറ്റീവ് എന്ന ഫംഗ്ഷൻറെ അടിസ്ഥാനമാക്കിയുള്ള ഭാഗിക ഡെറിവേറ്റീവിന് തുല്യമായിരിക്കണം എന്നതാണ് ഈ നിബന്ധന ഇവിടെ രണ്ടു വിധത്തിലാണ് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആവുന്നതിന് ഇത് അനിവാര്യമാണെന്നും ഒരു ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആയാൽ ഈ അവസ്ഥ ആയിരിക്കുമെന്നും ഉള്ള രണ്ട് വിധം അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമായതിനാൽ അതിന്റെ തെളിവിലൂടെയും നമ്മൾ പോകും ഈ അവസ്ഥ അനിവാര്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം അത് അർത്ഥമാക്കുന്നത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു തുടർന്ന് ആണെന്ന് നമ്മൾ തെളിയിക്കും ഇവിടെ ഈ സമവാക്യം എക്സാക്റ്റ് ആണെന്ന് നമ്മൾ അനുമാനിച്ചതിനാൽ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ നിർവചനം അനുസരിച്ച് നമുക്ക് രണ്ട് വേരിയബിളുകൾ ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാകും അതിൻറെ ഡിഫറൻഷ്യൽ ഈ ആയിരിക്കും അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്നാകുന്നു ഇതിൽ ഗുണകങ്ങൾ ആയ എന്നിവ സമവാക്യത്തിൻറെ വലതു വശത്തും ഇടതുവശത്തും ഉണ്ട് അവയെ തുല്യം ആക്കിയാൽ എന്നും എന്നും ആയി ലഭിക്കുന്നു ഇവിടെ എന്ന ഈ ഫംഗ്ഷൻറെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്കൾ വരെ കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കേണ്ടത് ഉണ്ട് കാരണം എന്നിവയിൽനിന്ന് എന്നിവ ലഭിക്കുന്നതിന് ൻറെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്കൾ എഴുതേണ്ടത് ഉണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആണെന്ന് അനുമാനിക്കുന്നതിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്താണ് ഇവിടെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്കൾ എഴുതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നിങ്ങനെയാണ് ഇവയിലെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്കൾ രണ്ടും തുല്യമാണെന്നതിനാൽ നമുക്ക് എന്ന് തുല്യമാക്കി എഴുതാം അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആണെങ്കിൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു ഇനി നമ്മൾ തിരിച്ച് ആണെന്ന് അനുമാനിക്കുകയും തന്നിരിക്കുന്ന സമവാക്യം എക്സാക്റ്റ് ആണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആവശ്യമായതും മതിയായതുമായ ഈ നിബന്ധനയുടെ തെളിവ് നമ്മൾ പൂർത്തീകരിക്കുന്നു അതിനാൽ നമ്മൾ തന്നിരിക്കുന്ന വ്യവസ്ഥ മതിയായതാണെന്ന് എടുക്കുന്നു അതായത് എന്നത് ഹോൾഡ് ചെയ്യുന്നു എന്നർത്ഥം തുടർന്ന് ഈ എക്സാക്റ്റ് ആണെന്ന് നമ്മൾ കാണിക്കും ഇത് എക്സാക്റ്റ് ആണെന്ന് കാണിക്കുന്നതിന് അടിസ്ഥാനപരമായി നമുക്ക് ഒരു ഫംഗ്ഷൻ ലഭിക്കണം അതിൻറെ ഡിഫറൻഷ്യൽ കൃത്യമായി എന്നായിരിക്കണം അതിനർത്ഥം ഇവിടെ ഒരു ഫംഗ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് എങ്ങനെയെന്നാൽ അതിൻറെ ഡെറിവേറ്റീവ് എന്നതിന് തുല്യം ആയിരിക്കണം അതായത് അത്തരമൊരു ഫംഗ്ഷന്റെ നിർമ്മാണത്തിനായി ഒരു ചെറിയ തിയറിയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന വിധത്തിലുള്ള ഒരു ഫംഗ്ഷൻ എടുക്കും അതായത് ഇവിടെ യെ ൻറെ ഇൻറെഗ്രേൽ ആയിട്ട് എടുക്കുന്നു അതിനാൽ ഈ ഇൻറെഗ്രേൽ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് അടിസ്ഥാനമാക്കിയുള്ള ഇൻറെഗ്രേൽ ഉള്ളത് കാരണം ഇതിൻറെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ന ബന്ധം ലഭിക്കുന്നു ഡെറിവേറ്റീവ് എന്നായിട്ടുള്ള നമ്മുടെ കണ്ടുപിടിക്കുന്നതിനുമുമ്പ് മുമ്പ് നമ്മൾ ചെയ്യുന്നത് അതായത് ൽനിന്നും നമ്മൾ എടുത്ത യുടെ അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് കുറയ്ക്കുമ്പോൾ അത് മാത്രമായുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് കാണിക്കുന്നു ഇത് കാണിക്കുക എന്നതിനർത്ഥം അടിസ്ഥാനമാക്കി നമ്മൾ ഇതിൻറെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് പൂജ്യം ആയിരിക്കണം എന്നാണ് നമുക്കുള്ളവ എന്നിവയാണ് എന്നത് പരിഗണിക്കുന്നു അത് 0 ആയിരിക്കും എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിൽനിന്നും നമുക്ക് എന്നത് മാത്രമായുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് പറയാൻ കഴിയും ഇവിടെ എന്നതാണ് ഇതിൽ സെക്കൻഡ് ഓർഡർ മിക്സഡ് ഡെറിവേറ്റീവുകളുടെ സമത്വം അനുമാനിച്ചാൽ നമുക്ക് അത് എന്ന് എഴുതാം അതിൽനിന്ന് എന്നെഴുതുന്നു ഇനി നമ്മൾ എന്നത് പരിഗണിക്കുന്നു ഇതിൻറെ ഡെറിവേറ്റീവ് എന്ന് എഴുതാം ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ്കളുടെ രൂപത്തിൽ എന്ന് എഴുതാം ഇതിൽ വലതുവശത്തെ എന്ന മൂന്നാം പദം പൂജ്യമായിരിക്കും കാരണം എന്നത് മാത്രമുള്ള ഒരു ഫങ്ഷൻ ആണ് അതുകൊണ്ട് ഇത് എന്നാകുന്നു അതിനാൽ എന്ന ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആവുന്നതിന് ആവശ്യമായതും മതിയായതുമായ വ്യവസ്ഥ യും ഉം തീർച്ചയായും തുല്യമായിരിക്കണം എന്നതാണ് തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആണോ എന്ന് നോക്കുന്നതിന് ഈ വ്യവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട് സമവാക്യം എക്സാക്റ്റ് ആണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആയിട്ടുള്ള നിർമ്മിക്കേണ്ടതുണ്ട് അത് എക്സാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ ലഭിക്കുന്നതിന് മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ ഒരു പരാമർശമുണ്ട് എന്നത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻറെ സൊലൂഷൻ എന്ന് എഴുതാം കാരണം ആയിട്ടുള്ള ഒരു നിലനിൽക്കുന്നതിനാൽ എന്നതിൽനിന്ന് എന്നും c എന്നും ലഭിക്കുന്നു ഇതാണ് നമ്മൾ നോക്കികൊണ്ടിരിക്കുന്ന ബന്ധം അതോടൊപ്പം നമ്മുടെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ സൊലൂഷൻഉം ഇതാണ് ഇവിടെ നമുക്കൊരു കാര്യം ഓർക്കാൻ ഉള്ളത് നമ്മുടെ നിർമ്മാണമനുസരിച്ച് എന്നത് എന്നായിരുന്നു അതിനാൽ എന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നല്ലാതെ മറ്റൊന്നുമല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നത് മാത്രമുള്ള ഒരു ഫങ്ക്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെകാണിച്ചിട്ടുള്ളത് ആണ് അതിനാൽ നമുക്ക് തന്നിരിക്കുന്ന സമവാക്യം എക്സാക്റ്റ് ആണ് എങ്കിൽ അതിൻറെ സൊലൂഷൻ നേരിട്ട് എന്ന് എഴുതാം ഇതിൽ ആദ്യപദം നമുക്ക് തന്നിരിക്കുന്ന സമവാക്യത്തിലെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് പക്ഷേ ഇതിലെ എന്ന രണ്ടാം പദത്തിൻറെ ഇവാലുവേഷൻ ചെയ്യുന്നത് അല്പം സങ്കീർണമാണ് കാരണം ആദ്യം നമ്മൾ സജ്ജമാക്കണം അതിൻറെ അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു ൽ നിന്നും കുറച്ചാൽ കിട്ടുന്ന മാത്രമുള്ള ഫംഗ്ഷനെ ഇൻഡഗ്രേറ്റ് ചെയ്യണം ഇവിടെ നമുക്ക്എന്നത് മാത്രമുള്ള ഫംഗ്ഷൻ ആണ് അതായത് ൽ നിന്നും ചില ഫംഗ്ഷനുകൾ ഒഴിവാക്കുമ്പോൾ മാത്രമുള്ള ഫംഗ്ഷൻ കിട്ടുന്നു അതിനർത്ഥം ലെ അടങ്ങാത്ത മാത്രമടങ്ങുന്ന പദങ്ങൾ എടുക്കുക എന്നാണ് ഇതിനാൽ സൊലൂഷനെ നമുക്ക് എന്ന് എഴുതാം ഒരാൾക്ക് ഈ ഡയറക്റ്റ് രീതിയും ഉപയോഗിക്കാൻ കഴിയും എന്നത് ഉദാഹരണത്തിൽ കാണാം പക്ഷേ അതിൻറെ ആവശ്യമില്ല കാരണം സമവാക്യം എക്സാക്റ്റ് ആണെന്ന് അറിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഡെറിവേറ്റീവ് ആകുന്ന വിധത്തിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ചിട്ടയായ സമീപനത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ നേരിട്ടുള്ള സൂത്രവാക്യം ഉപയോഗിക്കേണ്ടതില്ല നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ കടന്നു പോകാം എന്ന ഡിഫറൻഷ്യൽ സമവാക്യം എടുക്കുന്നു ഇതിൽ എന്നിങ്ങനെയാണ് അവയിൽനിന്നും എന്ന് ലഭിക്കുന്നു അതിനാൽ സമവാക്യം എക്സാക്റ്റ് ആണ് അതിനാൽ ആയിട്ടുള്ള ഒരു ഫങ്ക്ഷൻ നിലനിൽക്കുന്നു ഇവിടെ ഒരു ഫംഗ്ഷൻ നിലവിലുണ്ടെന്ന് നമുക്കറിയാം അതിൽനിന്നും എന്നിവ എഴുതാം നമുക്ക് ഇപ്പോൾ ഈ രണ്ട് ബന്ധങ്ങളുണ്ട് അടിസ്ഥാനമാക്കി ഇൻറെഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ന് ലഭിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കി ഡിഫറൻഷ്യറ്റ് ചെയ്താൽ എന്നാവുന്നു പക്ഷേ നമുക്ക് എന്നുണ്ട് അതിനാൽ എന്നും എന്നും എന്നും ലഭിക്കുന്നു ഇവിടെ സൊലൂഷൻ എന്നായിരിക്കും അതായത് എഫ് എന്ന ഫംഗ്ഷൻ എന്ന കോൺസ്റ്റന്റ്ന് തുല്യമാണെന്ന് എഴുതാൻ സാധിക്കും എന്ന കോൺസ്റ്റന്റ് നേരത്തെ നമ്മൾ ഉപയോഗിച്ചതിനാൽ ആണ് എന്ന കോൺസ്റ്റന്റ് എടുത്തത്

എന്നിവയിൽനിന്ന് നമുക്ക് എന്ന് എഴുതാം ഇതിൽ വലതുവശത്തേക്ക്ടുത്ത് എന്ന സൊലൂഷൻ ആയി എഴുതാം ഇതിനെ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു അതിനാൽ എന്ന് സൊല്യൂഷൻ ലഭിക്കുന്നു നമുക്ക് ലഭിച്ച എഫിൽ നു പകരം നൽകിക്കൊണ്ടാണ് നമ്മൾ പരിഗണിച്ച എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ സൊലൂഷൻ ലഭിച്ചത് സമവാക്യം എക്സസാറ്റല്ലാത്തപ്പോൾ നമ്മൾ ഇവിടെ അതേ പ്രക്രിയ പിന്തുടരുകയാണെങ്കിൽ ഏത് ഘട്ടത്തിൽ നമുക്ക് പ്രശ്നം ലഭിക്കും അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കുടുങ്ങുക അതായത് അത്തരം എഫ് നിലവിലില്ലെന്ന് എവിടെയാണ് നാം മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ ഉന്നയിക്കാനുള്ള ഒരു ചോദ്യം അബദ്ധവശാൽ ആ പോയിന്റിലേക്ക് പോകുന്നതിനുമുമ്പ് നമ്മൾ നേരത്തെ എഴുതിയ നേരിട്ടുള്ള ഫോർമുല ഉപയോഗിച്ച് സൊലൂഷൻ എഴുതാം നമുക്ക് നൽകിയിരിക്കുന്ന എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യം

ഇതിൻറെ സൊലൂഷൻ നേരിട്ട് എന്ന രൂപത്തിൽ എഴുതാം

അതിനാൽ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ ലഭിക്കുന്നതിന് ഈ ഫോർമുല ഉപയോഗിക്കാനാകും സമവാക്യം എക്സാക്റ്റ് അല്ലെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ തുടങ്ങിവെച്ച ചർച്ചയിലേക്ക് നമുക്ക് ഇപ്പോൾ മടങ്ങി എത്താം ഉദാഹരണത്തിന് ഈ എന്ന സമവാക്യം പരിഗണിക്കുന്നു ഈ സമവാക്യം എക്സാക്റ്റ് അല്ലെന്നും അതിനാൽ മുകളിൽ ചർച്ച ചെയ്ത രീതിയിൽ ഇത് പരിഹരിക്കാനാവില്ലെന്നും നമ്മൾ ആദ്യം കാണും പ്രധാന കാര്യം ഇത് ചില ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ ആണെന്ന് അനുമാനിച്ചാൽ എവിടെയാണ് പ്രശ്നം ലഭിക്കുകയെന്ന് ഇപ്പോൾ നമ്മൾ കാണും തുടർന്ന് സമവാക്യം എക്സാക്റ്റ് അല്ലെന്നത് ഏത് ഘട്ടത്തിലാണ് കൃത്യമായി മനസ്സിലാക്കുക എന്നതും നമ്മൾ ഇപ്പോൾ കാണും ഉദാഹരണത്തിന് നമ്മൾ എക്സാക്റ്റ് ആവാനുള്ള നിബന്ധന പരിശോധിക്കാതെ മുന്നോട്ടുപോകുന്നു ഇവിടെ വെറുതെ നമ്മൾ എന്നത് പരിശോധിച്ചാൽ അങ്ങനെയല്ല അവ തുല്യമല്ല എന്നു കാണാം അതിനാൽ നൽകിയ സമവാക്യം എക്സാക്റ്റ് ഡിഫറൻഷ്യൽ സമവാക്യമല്ല ഇവിടെ ഡെറിവേറ്റീവുകൾ

പക്ഷേ മുമ്പ് നമ്മൾ ചെയ്തതുപോലെ മുന്നോട്ടുപോകുന്നു അതിനർത്ഥം എന്നും എന്നും എടുക്കാം ഇവയിൽ ഒന്നാമത്തെതിനെ അടിസ്ഥാനമാക്കി ഇൻറെഗ്രേറ്റ് ചെയ്യുന്നു നമുക്ക് എന്ന് കിട്ടും ഇതിനു അടിസ്ഥാനമാക്കി ഡിഫറൻഷ്യറ്റ് ചെയ്താൽ എന്നും ഇതിൽനിന്ന് എന്നും ലഭിക്കുന്നു ഇതിൽ ഇടത് വശത്ത് ഇത് യുടെ ഒരു ഫംഗ്ഷനാണെന്ന് നമ്മൾ പറയുന്നു പക്ഷേ വലതുഭാഗത്ത് നമുക്ക് ഈ സമവാക്യത്തിൽ ലഭിക്കുന്നു അതേസമയം മുമ്പത്തെതിൽ സമവാക്യം എക്സാക്റ്റ് ആയിരുന്നപ്പോൾ നമുക്ക് ഇത് ഒരിക്കലും ന്റെ ഒരു ഫംഗ്ഷനായി ലഭിച്ചിരുന്നില്ല യുടെ പദങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ഇവിടെ ഇത് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല ഇത് പൊരുത്തപ്പെടാത്തത് കാരണം ഈ സമവാക്യം പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല അതിനാൽ തന്നിരിക്കുന്ന സമവാക്യം ഡിഫറൻഷ്യൽ ആയിട്ടു വരുന്ന തരത്തിലുള്ള ഒരു നമുക്ക് കണ്ടെത്താനാവില്ല അതിനാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആവാനുള്ള നിബന്ധന പരിശോധിക്കാതെ അബദ്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ആ സമവാക്യം ഡിഫറൻഷ്യൽ ആയിട്ടു വരുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്താൻ കഴിയാതെ വരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ കുടുങ്ങും എന്നത് പ്രകടമാക്കുന്ന ഒരു ഉദാഹരണമാണ് ചെയ്തത് നമ്മൾ ഉപസംഹരിക്കുകയാണ് ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് ആയിരിക്കുന്നതിന് ആവശ്യമായതും മതിയായതുമായ വ്യവസ്ഥകൾ ആണെന്നും സമവാക്യം എക്സാക്റ്റ് ആണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ എന്നത് ഡെറിവേറ്റീവ്ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ കണ്ടെത്താനാകുമെന്നും സമവാക്യത്തിൻറെ സൊല്യൂഷൻ എന്ന് എഴുതാമെന്നും നമ്മൾ കണ്ടു അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ എക്സാക്ട്നെസ്സ് പരിശോധിച്ച് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനുള്ള പ്രക്രിയ ഇതാണ് അടുത്ത ലെക്ച്ചറിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം എക്സാക്റ്റ് അല്ലായെങ്കിൽ സൊല്യൂഷൻ ലഭിക്കുന്നതിന്ഉള്ള രീതികളുമായി നമ്മൾ തുടരും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി